എല്ലാവർക്കും നമസ്കാരം ഞാൻ ഐഐടി കാൺപൂരിലെ ഹ്യുമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള രവി ചന്ദ്രൻ ആണ് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് എൻ എൽ മൂക്ക് കോർസിലൂഡ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ കോഴ്സിന്റെ പകുതി പൂർത്തിയാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നാല് ആഴ്ചകൾ കഴിഞ്ഞു തുടർന്ന് ഫോറത്തിൽ വളരെ രസകരമായ ചർച്ചകൾ നടക്കുന്നു ഇതുവരെ പങ്കെടുക്കാത്തവരോട് ഫോറത്തിൽ ചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവ വളരെ രസകരമാണ് എനിക്ക് ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്നതിനുമുമ്പുതന്നെ ആളുകൾ പോലും സ്വയം ഉത്തരം നൽകുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഉത്തരങ്ങൾ ഏറ്റവും മികച്ച ഉത്തരമായി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോഴ്സിന്റെ ബാക്കി ഭാഗത്തേക്ക് നീങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ കരുതുന്നു ഞങ്ങൾ നേരത്തെ ആരംഭിച്ചതുപോലെ തന്നെ ആവേശകരമായിരിക്കും ഇത് നാല് ആഴ്ചകൾ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അഞ്ചാം ആഴ്ചയിലാണ് ഇതാണ് ആദ്യത്തെ മൊഡ്യൂളും പ്രഭാഷണവും ഇപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ ഒരു പുതിയ ആശയം കൊണ്ടുവരാൻ പോകുന്നു തുടർന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾ വളരെയധികം നിസ്സാരമായി എടുക്കുകയും അത് വ്യാപിക്കുകയും ചെയ്യുന്ന ഒന്ന് വീണ്ടും നമ്മുടെ ജീവിതകാലം മുഴുവൻ പക്ഷേ നമ്മൾ നിർത്തുകയും അത് നമ്മെ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് സാങ്കേതികവിദ്യയെക്കുറിച്ചും എങ്ങനെയാണെന്നും നിങ്ങൾ ഊഹിച്ചിരിക്കാം ഇത് ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ വികസനത്തിനുള്ള നമ്മുടെ കഴിവിനെ എങ്ങനെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ വളർത്തുന്നു വ്യക്തിത്വം സ്വന്തമാക്കുകയും അത് മെച്ചപ്പെടുത്തുന്നതിന് സോഫ്റ്റ് സ്കിൽസ് ഉപയോഗിക്കുകയും ചെയ്യുക ഇപ്പോൾ ഈ മൊഡ്യൂളിലും പ്രത്യേകിച്ച് ഈ പ്രഭാഷണത്തിലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആശയം അത് ആണോ എന്ന് ശരിയായ കാര്യം ചെയ്യണോ വേണ്ടയോ എന്തുകൊണ്ടാണ് നമ്മൾ വികസിപ്പിക്കുന്നത് അത്തരം വ്യക്തിത്വം യഥാർത്ഥത്തിൽ അടിസ്ഥാന ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്തതെന്ന് വേഗത്തിൽ ഓർക്കുക അവസാനത്തെ പ്രഭാഷണവും തുടർന്ന് ഹൈലൈറ്റുകളുടെ കാര്യത്തിൽ ചില പ്രധാന പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് നൽകും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്ന കൂടുതൽ വെല്ലുവിളികളുമായി കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ തുടർന്നു ടെലിഫോൺ കോളുകളും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കോളർമാരുമായി ഇടപെടുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ദേഷ്യത്തിൽ വിളിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു അതിനാൽ ദേഷ്യത്തിൽ വിളിക്കുന്നവരുമായി ഇടപെടുന്നതിന്റെ മിക്ക വശങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് സമാനമാണ് സംഘർഷ പരിഹാരത്തിൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയുമായി എന്നാൽ ചില പ്രത്യേക സ്വഭാവസവിശേഷതകളുണ്ട് ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്തു അതിനുശേഷം ഞാൻ നിങ്ങളുടെ ചില അവശ്യ ടെലിഫോൺ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് അടിസ്ഥാന തലത്തിലോ ഉന്നത തലത്തിലോ ആയിരിക്കണം നിങ്ങളുടെ ശബ്ദം നിയന്ത്രിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക എന്നതായിരുന്നു ഞാൻ ആരംഭിച്ച പ്രധാന കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോലും അത് റെക്കോർഡ് ചെയ്യാനും പരിശീലിപ്പിക്കാനും തുടർന്ന് സോറി നന്ദി തുടങ്ങിയ പ്രധാന വാക്കുകൾ പറയാനും കഴിയും സ്വാഗതം മുതലായവ നിങ്ങൾ ടെലിഫോണിലുടനീളം ഒരു സജീവ ശ്രോതാവായിരിക്കണം സംഭാഷണത്തിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കണം കാരണം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും സുഖം തോന്നുന്നത് മറ്റേ വ്യക്തിയെ ബാധിക്കുകയും ആ വ്യക്തിക്കും സുഖം തോന്നുകയും ചെയ്യും നിങ്ങളുടെ വിളിച്ചയാളെ നിങ്ങൾ മുൻകൂട്ടി അറിയണം അല്ലെങ്കിൽ വിളിച്ചയാളെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയില്ലെങ്കിലും പ്രായം മാനസികാവസ്ഥ തലക്കെട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചയാൾ ആരാണെന്ന് ഊഹിക്കാൻ ശ്രമിക്കുക അതിലൂടെ നിങ്ങൾ വിളിച്ചയാളെ അഭിസംബോധന ചെയ്യണം നിങ്ങൾക്ക് ചില പ്രാരംഭ ഭയം ഉണ്ടാകാം പ്രത്യേകിച്ചും നിങ്ങൾ ഒരു പുതിയ സ്ഥലത്താണെങ്കിൽ ചില കഠിനമായ കോളറുകളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ചില പ്രാരംഭ ഭയവും ആശങ്കയും ഉണ്ടാകാം എന്നാൽ പരിശീലിക്കുന്നതിലൂടെയും തുടർന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ ആത്മവിശ്വാസം വളർത്തുക കുറച്ച് പ്രാരംഭ ഭയം ആവശ്യമാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം ഊർജ്ജസ്വലരാകുകയും ചെയ്യുക മര്യാദയുള്ളവരായിരിക്കുക മര്യാദയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക പദപ്രയോഗങ്ങൾ സാങ്കേതിക പദങ്ങൾ എന്നിവ ഒഴിവാക്കുക നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും നിങ്ങൾ ആ രീതിയിൽ വിശദീകരണങ്ങൾ കാണും തെറ്റായ ആശയവിനിമയം ഒഴിവാക്കുക നിങ്ങൾ ഒരു കോൾ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുക കാരണം എല്ലാ സമയത്തും കോളുകൾ ഉണ്ടാകാറില്ല വളരെ സമാധാനപരമായും യോജിച്ച രീതിയിലും അവസാനിക്കാൻ പോകുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളായി നിങ്ങൾ കോളുകൾ പരിഗണിക്കണം കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ പ്രതിച്ഛായ ആത്യന്തികമായി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കണം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ആയിരിക്കരുത് ആളുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ സ്വയം ആളുകളെ ഒഴിവാക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അവരിൽ ഒരാളാകാൻ പാടില്ല ആളുകൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആളുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ജനപ്രിയനായ വ്യക്തിയായി മാറുക ഞാൻ നിർദ്ദേശിച്ച നുറുങ്ങുകൾ പാലിക്കുക ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ചില ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിച്ചു ആറിനെപ്പോലുള്ള സംഗീത പ്രതിഭയെപ്പോലെ ആയിരിക്കാൻ സാങ്കേതികവിദ്യയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും അദ്ദേഹം തൻറെ സംഗീതം സൃഷ്ടിക്കുന്ന സമയത്ത് പൂർണ്ണമായും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഫോൺ കോളുകളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇപ്പോൾ ടെലിഫോണും മറ്റ് സാങ്കേതികവിദ്യകളും നമ്മുടെ പോലെ ഇന്റർപോസ് ചെയ്തിട്ടുണ്ട് വ്യക്തിത്വം തീർച്ചയായും അതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും മനുഷ്യരായി തുടരുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറുകയാണോ സാങ്കേതികവിദ്യ നമ്മൾ സാങ്കേതിക മനുഷ്യരായി മാറിയതുപോലെയാണ് ഉത്തരം നമ്മൾ സാങ്കേതിക മനുഷ്യരാണ് നമ്മൾ സാങ്കേതിക മനുഷ്യരാണ് സാങ്കേതികവിദ്യയിലുള്ള സ്ത്രീയേ ഞങ്ങൾ സാങ്കേതികവിദ്യയിലുള്ള കുട്ടികളാണ് അതിനാൽ സാങ്കേതികവിദ്യയ്ക്ക് അനുസൃതമായി നമ്മൾ സ്വയം മാറുകയാണ് ഈ ടെക്നോ സംസ്കാരത്തിലോ സാങ്കേതികവിദ്യ എങ്ങനെ ബാധിക്കുന്നു എന്നതിലോ പ്രവർത്തിക്കുന്ന സിദ്ധാന്തങ്ങളുണ്ട് ജീവിക്കുന്ന പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട പദങ്ങളും ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രസകരമായ പദം ഇപ്പോൾ നമ്മൾ സൈബോർഗുകളായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് എന്താണ് സൈബോർഗുകൾ സൈബോർഗുകൾ പാർട്ട് ഹ്യൂമൻ ആൻഡ് പാർട്ട് മെഷീനാണ് ഡോണ ഹാരവേ തന്റെ പ്രശസ്തമായ സിമിയോൺസ് എന്ന പുസ്തകത്തിൽ പറയുന്നു നാമെല്ലാവരും സൈബോർഗുകളായി മാറിയ ടെക്നോ മനുഷ്യരെ സൈബോർഗുകളും സ്ത്രീകളും സൂചിപ്പിക്കുന്നു ഇപ്പോൾ സൈബോർഗുകൾ യഥാർത്ഥത്തിൽ സൈബർനെറ്റിക് ഓർഗനൈസേഷനുകൾ എന്ന പദത്തിൽ നിന്ന് ചുരുക്കിയിരിക്കുന്നു ഇപ്പോൾ സൈബോർഗുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർത്തികൾ മങ്ങിയതാണെന്ന് അവ സൂചിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യനെ യന്ത്രത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല അവ സംയോജിപ്പിക്കപ്പെട്ടു അവ അവിഭാജ്യ ഘടകങ്ങളായി മാറി ജീവജാലങ്ങൾ ഇനി അറിവിന്റെ ശരീരങ്ങളല്ല മറിച്ച് ജൈവ ഘടകങ്ങൾ ഒരുതരം വിവരങ്ങളാണ് ഡോണ ഹാരവേ പറയുന്നത് പ്രോസസ്സിംഗ് ഉപകരണമാണ് നമ്മളെക്കുറിച്ച് നമുക്ക് സ്വന്തമായി അറിവില്ലെന്ന് അവൾ പറയുന്നു എന്നതാണ് അർത്ഥം എന്നാൽ നമ്മൾ ഒരുതരം ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ ഒരുതരം പെൻ ഡ്രൈവ് പോലെയാണ് മാറുന്നത് ആളുകൾക്ക് ഞങ്ങളെ ആക്സസ് ചെയ്യാനും ഞങ്ങളെ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുന്ന വിവരങ്ങൾ വഹിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ സൈബോർഗുകളുടെ സൈബർനെറ്റിക് ജീവികൾ ജീവശാസ്ത്രം തമ്മിലുള്ള സംയോജനത്തിന്റെ ഫലമാണ് ഒപ്പം സാങ്കേതികവിദ്യയും സൈബോർഗുകളായി ഈ നാണയങ്ങൾക്ക് സൈബോർഗുകൾ നൽകിയ മറ്റൊരു മേഖലയാണ് സൈബർനെറ്റിക്സ് ആദ്യ ഭാഗം യഥാർത്ഥത്തിൽ സൈബർനെറ്റിക്സിൽ നിന്നുള്ളതാണ് സൈബർനെറ്റിക്സ് ലളിതമായി നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്നാൽ ഇന്നത്തെ ലോകത്ത് ഏത് തരത്തിലുള്ളതാണ് നിയന്ത്രണ സംവിധാനങ്ങൾ അതിനാൽ യഥാർത്ഥത്തിൽ യന്ത്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറുകളോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ അതിനാൽ സൈബർനെറ്റിക്സ് അർത്ഥമാക്കുന്നത് അതാണ് ഇപ്പോൾ മനുഷ്യർ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം കൃത്രിമ ശേഷിയുള്ള യന്ത്രങ്ങളോ കമ്പ്യൂട്ടറുകളോ വീണ്ടും നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ബുദ്ധി ഒരു സാധാരണ മനുഷ്യനേക്കാൾ നന്നായി പെരുമാറുന്നു നമ്മൾ സൈബോർഗുകളാണ് നമ്മളിൽ ചിലർ ഇപ്പോഴും ആകുന്ന പ്രക്രിയയിലാണ് എന്നാൽ മറ്റ് ഉണ്ട് നമ്മൾ ഇതിനകം സൈബോർഗുകളായി മാറിയെന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ നിർമ്മിച്ച സിദ്ധാന്തങ്ങളോട് നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സൈബോർഗുകളായി മാറിയെന്ന് നമുക്ക് എങ്ങനെ നോക്കാം നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു മാർഷൽ മക്ലൂഹൻ തൻ്റെ പ്രസിദ്ധമായ മീഡിയം ഈസ് എന്ന പുസ്തകത്തിലെ ഈ ഉദ്ധരണി നോക്കൂ മക്ലുഹാൻ സംസാരിക്കുന്ന സന്ദേശം എന്തെന്നാൽ എല്ലാ മാധ്യമങ്ങളും ഏതെങ്കിലും മാധ്യമമാണെന്ന് അദ്ദേഹം പറയുന്നു എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നവയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ ഫാക്കൽറ്റിയുടെ വിപുലീകരണങ്ങളാണ് അതിനാൽ ഞാൻ ഉദ്ധരണി വായിക്കുകയും തുടർന്ന് മാർഷൽ മക്ലൂഹാനിൽ നിന്നുള്ള ഉദ്ധരണി എല്ലാ മാധ്യമങ്ങളും വിശദീകരിക്കുകയും ചെയ്യട്ടെ ചില മനുഷ്യ ഫാക്കൽറ്റികളുടെ വിപുലീകരണങ്ങളാണ് ചക്രം കാലിന്റെ വിപുലീകരണമാണ് ചക്രത്തിൽ ഞങ്ങൾക്ക് കാർ ഉണ്ട് അതിനാൽ അവൻ പറയുന്നു അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ സൈക്കിൾ പോലും അവൻ പറയുന്നു പുസ്തകത്തിൻറെ പാദത്തിൻറെ വിപുലീകരണം കണ്ണിൻറെ വിപുലീകരണമാണ് നമ്മൾ പുസ്തകം വിപുലീകരിച്ചു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഇ ബുക്കുകൾ ഉണ്ട് പിന്നെ നമുക്ക് മോണിറ്ററുകളും ടിവികളും ഉണ്ട് കണ്ണ് വസ്ത്രങ്ങളുടെ ഉയർന്ന പ്രൊജക്ഷനുകൾ എല്ലാം ചർമ്മത്തിന്റെ വൈദ്യുത വിപുലീകരണമാണെന്ന് അദ്ദേഹം പറയുന്നു നാഡീവ്യവസ്ഥയുടെ വിപുലീകരണമാണ് സർക്യൂട്ട് അതിനാൽ മക്ലൂഹാന് വേണ്ടി എല്ലാത്തരം സാങ്കേതിക കണ്ടുപിടിത്തങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ ഫാക്കൽറ്റി ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ പ്രവർത്തനത്തെ വിപുലീകരിക്കുന്നു ഇതിൽ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള മനുഷ്യഭാഗങ്ങൾ എന്നാൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ടെക്നോ കൾച്ചർ അല്ലെങ്കിൽ സൈബർ കൾച്ചർ സാഹചര്യം വിപുലീകരണങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു വിപുലീകരണങ്ങൾ വളരെയധികം സ്വയംഭരണാധികാരം നേടിയതിനാൽ അവ യഥാർത്ഥമായിത്തീർന്നു ഇത് കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരുതരം സാങ്കേതികവിദ്യ പോലെ എന്തെങ്കിലും ഉണ്ടാകാൻ തുടങ്ങുന്നു വിപുലീകരണം എന്നാൽ പിന്നീട് വിപുലീകരണം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു അത് അതിന്റെ ഭാഗവും ഭാഗവുമായി മാറുന്നു നിങ്ങളുടെ ശരീരത്തിൽ ചേർത്തിരിക്കുന്ന ഒരു തരം ലോഹമാണ് നിങ്ങൾ പൊട്ടലിനു ശേഷം അതിനാൽ തുടക്കത്തിൽ ഇത് പുറത്തുള്ള ഒന്നായിരുന്നു എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അത് നിങ്ങൾക്ക് കഴിയില്ല അതില്ലാതെ വിടുക ഹൃദയത്തിനുള്ളിൽ വീണ്ടും സൂക്ഷിച്ചിരിക്കുന്ന പേസ്മേക്കർ ഇല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങൾ ഭാഗവും പാഴ്സലും ആയിത്തീരുന്നു തുടർന്ന് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ വിപുലീകരണങ്ങളാണെന്ന് കരുതിയ അവ പൂർണ്ണമായും സ്വയംഭരണാധികാരമുള്ളവയാകുകയും അവ നിർവചിക്കുകയും ചെയ്യുന്നു അവർ ശ്രമിക്കുന്ന ഇതിന്റെ അർത്ഥമെന്താണെന്ന് വിപുലീകരണത്തിന്റെ ഉറവിടത്തിനും വിഷയത്തിനും ഐഡന്റിറ്റി നൽകുക ഉറവിട വിഷയത്തിന് പോലും ഐഡന്റിറ്റി നൽകാൻ മനുഷ്യരുടെ വിപുലീകരണമാണ് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന പേന ഒരു ലളിതമായ പേനയോ പാർക്കർ പേനയോ ആകട്ടെ അതിനാൽ അത് നിർവചിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഓടിക്കുന്ന കാറിനെ നിങ്ങൾക്ക് ചില ഐഡന്റിറ്റി നൽകുന്നു ഡ്രൈവ് ചെയ്യുക അതിനാൽ നിങ്ങൾ ഒരു നാനോ ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിഎംഡബ്ല്യു അല്ലെങ്കിൽ ഔഡി ഓടിക്കുകയാണെങ്കിലും അതിനാൽ അത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ നിങ്ങളുടെ ഒരു വിപുലീകരണമായി മാറി പക്ഷേ പതുക്കെ അത് ആരംഭിക്കുന്നു നിങ്ങളെ നിർവചിക്കുന്നത് പതുക്കെ അത് നിങ്ങൾക്ക് ഒരു വ്യക്തിത്വം നൽകാൻ തുടങ്ങുന്നു അതിനാൽ വസ്ത്രങ്ങൾ പോലും നിങ്ങൾ ധരിക്കുന്ന ബ്രാൻഡാണ് അതിനാൽ ഇത് നിങ്ങളെക്കുറിച്ചും ചിലത് പറയുന്നു അതിനാൽ നിങ്ങൾ തുടക്കത്തിൽ ആക്സസറികളായി എടുക്കുന്നതെല്ലാം താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് വിപുലീകരണമായി ലഭിക്കും നിങ്ങൾക്ക് ഒരു വ്യക്തിത്വം നൽകിക്കൊണ്ട് നിങ്ങളെ നിർവചിക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ യന്ത്രത്തിന് മനുഷ്യൻ നൽകിയിട്ടുണ്ടെന്ന് ഡോണ ഹറവേ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു ചികിത്സയും മനുഷ്യനും ഒരു യന്ത്രം പോലെയാണ് പരിഗണിക്കുന്നത് അതിനാൽ വിരോധാഭാസമെന്നു പറയട്ടെ മനുഷ്യരെ പരിഗണിക്കേണ്ടത് മറ്റൊരു രീതിയിലായിരിക്കണം മനുഷ്യരെയും യന്ത്രങ്ങളെയും യന്ത്രങ്ങളായി കണക്കാക്കണം അല്ലെങ്കിൽ നാം അവരെ യന്ത്രങ്ങളായി തിരിച്ചറിയണം എന്നാൽ നിർഭാഗ്യവശാൽ മനുഷ്യർക്ക് ആ വ്യക്തിത്വത്തിലൂടെ അവരുടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നിർവചിക്കുകയും അവർ പതുക്കെ യന്ത്രങ്ങളോ യന്ത്രങ്ങളോ ആയി മാറുകയും ചെയ്യുന്നു ഈ പോയിന്റ് വ്യക്തമാക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ ഡോണ ഹറവേ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു ഘട്ടത്തിലെത്തിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ നമ്മുടെ കൈവശമുള്ളതിനാൽ നമ്മൾ വളരെ പ്രകോപിതരാകുന്നു ആരെങ്കിലും സ്പർശിക്കുകയോ ആരെങ്കിലും എന്തെങ്കിലും പോറലുകളോ മറ്റെന്തെങ്കിലുമോ ഉണ്ടാക്കുകയോ ചെയ്താലും ദേഷ്യപ്പെടുന്നു പ്രത്യേകിച്ച് എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ പക്കലുള്ള ഏതെങ്കിലും ഉപകരണങ്ങളും ഇപ്പോൾ ഇത് ഒരു പുതിയ കാർ വാങ്ങിയ ഒരു പിതാവിന്റെ കഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ബൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഏതെങ്കിലും പുതിയ മെഷീൻ ഉണ്ടെങ്കിലോ പുതിയ ടിവി ഫോൺ അതിനാൽ അതിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ചും അത് ഒരു കാർ ആണെങ്കിൽ ഒരു ചെറിയ പോറൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതുപോലെ തോന്നുന്നു അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ മോശമായി തോന്നുന്നു നിങ്ങൾക്ക് പല്ലിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല അത് നിങ്ങളെ പൂർണ്ണമായും ആഘാതത്തിലാക്കും നിങ്ങളുടെ പുതിയ കാറിൽ ആരോ ഇടിക്കുന്നു ഇപ്പോൾ പിതാവ് തന്റെ ഗാരേജിൽ നിന്ന് കാർ പുറത്തെടുത്തു അത് അടയ്ക്കാൻ അകത്തേക്ക് പോയി അവൻ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനുമുമ്പ് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക അതേ സമയം എട്ടോ ഒൻപതോ വയസ്സുള്ള തൻ്റെ ചെറിയ മകനെ അദ്ദേഹം കണ്ടു അതിനാൽ അദ്ദേഹം വന്നു തുടർന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും എഴുതാൻ കഴിയുന്ന മൂർച്ചയുള്ള ഒരു വസ്തു നഖം ഉണ്ടായിരുന്നു അതിനാൽ അവൻ യഥാർത്ഥത്തിൽ പുതിയ കാറിൽ എന്തോ എഴുതുകയായിരുന്നു അച്ഛൻ അത് അകലെ നിന്ന് കണ്ടു തൻ്റെ മകനാണ് എഴുതുന്നത് എന്ന് അൽപ്പനേരത്തേക്ക് അയാൾ കരുതാതിരുന്നതിനാൽ അയാൾ വളരെ ദേഷ്യപ്പെട്ടു അവിടെവെച്ച് കാറിൽ ഈ അടയാളം ഉണ്ടാക്കുക അതിനാൽ അയാൾക്ക് ഒരു ചുറ്റിക ഉണ്ടായിരുന്നു വാസ്തവത്തിൽ അയാൾ ഗാരേജിൽ നിന്ന് ചുറ്റിക ഇറക്കാൻ പോയി എന്തോ അടിച്ചു അതിനാൽ താൻ ഓടിയെത്തിയ ചുറ്റിക അവൻ എടുക്കുകയും ഹാൻഡറിൽ മകന്റെ കൈയിൽ അടിക്കുകയും ചെയ്തു വിരലുകളിൽ അദ്ദേഹം എന്തോ എഴുതാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് വിരലുകളും ഇപ്പോൾ ആ കുട്ടി വേദനയോടെ കരഞ്ഞു എന്നിട്ട് വിരലുകൾ വേഗത്തിൽ അടിച്ചു വിരലുകൾ തകർന്നു ബോധം വന്നപ്പോൾ അയാൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു വിരൽ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും മൂന്നാമത്തേതും നീക്കം ചെയ്യേണ്ടിവന്നു വിരലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ മകൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി കാർ അപ്പോഴും അവിടെയുണ്ടായിരുന്നു പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു അവിടെ അതിനാൽ പിതാവിന് അൽപ്പം അസ്വസ്ഥത തോന്നി തുടർന്ന് മകൻ പറഞ്ഞു ഡാഡി നിങ്ങൾ അറിയില്ലെന്ന് എനിക്കറിയില്ല അവിടെ എന്തെങ്കിലും എഴുതാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അത് നീക്കം ചെയ്യാൻ കഴിയുമോ അതിനാൽ അതെ മകനേ അത് നീക്കം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിൽ കുറച്ച് പെയിന്റ് തളിക്കണം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എനിക്ക് സ്പ്രേ ചെയ്യാൻ കഴിയും തുടർന്ന് എനിക്ക് ഈ റിമൂവറും ഉണ്ട് അതിനാൽ ഞാൻ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പഴയതുപോലെ പുതിയതായിരിക്കും മകൻ കേട്ട പുതിയ കാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡാഡി നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് മുമ്പത്തെപ്പോലെ പുതിയതായിത്തീരും പക്ഷേ ഒരു കാര്യം എന്നോട് പറയൂ എനിക്ക് അത് വേണം അതിനാൽ ഈ വിരലുകൾ എപ്പോൾ വളരുമെന്ന് എന്നോട് പറയൂ എന്ന് അച്ഛൻ ചോദിച്ചു അതിനാൽ പിതാവ് പൂർണ്ണമായും നിശ്ശബ്ദനായി തുടർന്ന് താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അയാൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നിട്ട് അയാൾ കാറിൽ എത്തി പിന്നെ അയാൾ അത് കണ്ടു മകൻ ചെയ്ത എഴുത്ത് അവിടെ കുറച്ച് രക്തക്കറയും ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ച അദ്ദേഹം എന്താണ് എഴുതിയതെന്ന് കാണാൻ ആഗ്രഹിച്ചു മകൻ ഞാൻ എന്ന് എഴുതി ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു അച്ഛാ അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രമാണ് കഥയുടെ പാഠമെന്ന് പിതാവ് കരയാൻ തുടങ്ങി നമ്മൾ നമ്മുടെ ഭാഗമായിത്തീരുകയും നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തവിധം നമ്മൾ അതിൽ ആകൃഷ്ടരാകുകയും ചെയ്യുന്നു മനുഷ്യനും യന്ത്രവും തമ്മിൽ യന്ത്രവും മനുഷ്യനും തമ്മിൽ വേർതിരിച്ചറിയുക അതിനാൽ വ്യക്തിത്വം അവിടെ മങ്ങുന്നു അതിനാലാണ് ഡോണ ഹറവേ പറയുന്നു ഞങ്ങളുടെ യന്ത്രങ്ങൾ അസ്വസ്ഥതയുളവാക്കുന്നവയാണ് നമ്മൾ ഭയപ്പെടുത്തുന്നവരാണ് നിഷ്ക്രിയം ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥയിൽ കാർ ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അതിന് കഴിയില്ല സ്പർശിച്ചതിനാൽ അത് വളരെ വേദനിപ്പിക്കും അച്ഛന് വളരെ ദേഷ്യം വന്നു തുടർന്ന് അവൻ വന്ന് തൻ്റെ ശരീരത്തെ അടിച്ചു മകന്റെ സ്വന്തം വിരലുകളും ഭയപ്പെടുത്തുന്ന രീതിയിൽ നിഷ്ക്രിയവും പിന്നീട് നിങ്ങൾ മരിച്ചതുപോലെ നിഷ്ക്രിയവുമാണ് അതിനാൽ തന്റെ മകൻ ഒരു പ്രശ്നമുണ്ടാക്കുന്ന യന്ത്രമാണെന്ന് ആ നിമിഷം അദ്ദേഹം കരുതി പിന്നെ കാർ ഒരു മനുഷ്യനെപ്പോലെയാണ് അവൻ പോകുകയും മാന്തികുഴിയുണ്ടാക്കുകയും ചെയ്യുന്നു മറുവശത്ത് ചിന്തിക്കുന്നതിനുപകരം കാറിനെ ബാധിക്കുന്നു ഇപ്പോൾ ഇതാണ് അപകടം അതിനാൽ നിങ്ങളുടെ സ്വന്തം വിപുലീകരണങ്ങൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നു സ്വന്തം വ്യക്തിത്വം യഥാർത്ഥമാണ് എന്നിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം കൊണ്ടുപോകുന്നു ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണിത് തുടർന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങൾക്കും യന്ത്രത്തിനും ഇടയിൽ വെക്കേണ്ടിയിരുന്ന ഈ അതിർത്തി നിങ്ങൾ ലംഘിച്ചു പിന്നെ ഈ അതിർത്തിക്കുള്ളിൽ അതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള യന്ത്രങ്ങളല്ല സൈബോർജിയൻ മാറ്റം എങ്ങനെ സംഭവിച്ചുവെന്ന് ഈ മാറ്റം എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് കൂടുതൽ നോക്കാം മാറുന്ന കാലമാണ് എയ്റോസ്പേസ് സൈബർ സംസ്കാരത്തിൽ അത്ഭുതകരമായ പരിവർത്തനം സംഭവിച്ചതിന് കാരണം അതിനാൽ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട് അതിനാൽ ഇന്ന് മുഴുവൻ ക്ലാസ് മുറിയും പൂർണ്ണമായും മൊബൈലായി മാറിയിരിക്കുന്നു പഠിപ്പിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏകദേശം 15000 വിദ്യാർത്ഥികൾക്കായി ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു യൂട്യൂബിലും തുടർന്ന് നിങ്ങൾക്ക് അത് കാണാനും ഇന്റർനെറ്റിലൂടെ പ്രതികരിക്കാനും കഴിയും അതിനാൽ പൂർണ്ണമായും ഓൺലൈനിൽ ഞങ്ങൾ പരസ്പരം കാണുന്നു ഞങ്ങൾ പ്രതികരിക്കുന്നു പക്ഷേ ഞങ്ങൾ അതിർത്തികൾ നീക്കം ചെയ്തു അതിനാൽ ഇത് നല്ലതാണ് പക്ഷേ ഇത് ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവയുടെ കാലവും മാറ്റുകയാണ് വാട്ട്സ്ആപ്പ് ഐപോഡ് വെബ് ഇന്റർനെറ്റ് മൊബൈൽ വാസ്തവത്തിൽ ഞാൻ ഒരു സമ്പൂർണ്ണ പ്രഭാഷണം സമർപ്പിക്കാൻ പോകുന്നു അടുത്തത് മൊബൈലിലും മറ്റൊന്നിലും ഈ പുതിയ ഉപകരണങ്ങൾ പുതിയ ആപ്ലിക്കേഷനുകൾ പുതിയ സാങ്കേതികവിദ്യകൾ പുതിയ രീതികൾ എന്നിവയേക്കാൾ ഇപ്പോൾ ഇത് നമ്മെ എന്താണ് ചെയ്യുന്നത് ഇത് മനസ്സിനെയും ശരീരത്തെയും ചിന്താരീതികളെ ബാധിക്കുന്നു ചിന്തിക്കാനുള്ള കഴിവുകൾ ആവിഷ്കാര രീതികൾ ആശയവിനിമയം ഭാഷയിലെ മാറ്റം ഞങ്ങൾ പരീക്ഷാ പേപ്പറുകളിൽ എസ്എംഎസ് ഭാഷ ഉപയോഗിക്കുന്നു ഔപചാരിക അക്ഷരങ്ങളിൽ ചാറ്റ് ഭാഷ ഉപയോഗിക്കുന്നു ഏതെങ്കിലും ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഒരു ജോലി അപേക്ഷയ്ക്കോ കത്തെഴുതണം ഞങ്ങൾക്ക് വ്യത്യാസം അറിയില്ല നമ്മുടെ സംസാരം തന്നെ മാറി ടൈപ്പ്റൈറ്റർ നടന്നതിനാൽ കൈയക്ഷരം മാറി നമ്മൾ പൂർണ്ണമായും ടൈപ്പിംഗ് ഉപയോഗിക്കുന്നു നമ്മൾ ഇനി എഴുതുകയില്ല അതിനാൽ നമ്മൾ എഴുതുകയാണെങ്കിൽപ്പോലും നമ്മുടെ വിരലുകൾ നല്ല എഴുത്തിനോട് പൊരുത്തപ്പെടുന്നില്ല അതിനാൽ ഈ സ്ക്രിബിൾ വളരെ വ്യക്തമല്ല അതിനാൽ ഈ മാറ്റം മനസ്സിനെ മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നു സാങ്കേതികവിദ്യ കാരണം അതിനാൽ ടെക്നോ സയൻസ് സൈബർ സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള മറ്റൊരു നിരൂപകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ സാങ്കേതികവിദ്യയിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത സാങ്കേതികവിദ്യയിൽ നിന്ന് മനുഷ്യൻ ഇന്ന് വളരെ അപൂർവമായി മാത്രമേ വിവാഹമോചനം നേടുന്നുള്ളൂവെന്ന് അദ്ദേഹം പറയുന്നു അത് നമ്മെ പൂർണ്ണമായും വ്യാപിപ്പിക്കുകയും പരസ്പരം നുഴഞ്ഞുകയറുകയും ചെയ്തു സാങ്കേതികവിദ്യ മെഡിക്കൽ സാങ്കേതികവിദ്യകൾക്കുള്ളിലാണെന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി നോക്കൂ ടെലിഫോണുകളും പുറം ഉപഗ്രഹങ്ങളും അതിനാൽ നിങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് പോകുന്നു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചൊവ്വയിലേക്ക് പോകുന്നു നിങ്ങൾ പോകുമ്പോൾ ആശുപത്രി എന്നത് സാങ്കേതികവിദ്യയാണ് നിങ്ങൾ ഒരു ടെലിഫോൺ നിർമ്മിക്കുമ്പോൾ അത് സാങ്കേതികവിദ്യയാണ് കാലാവസ്ഥാ നിയന്ത്രിത ഓഫീസ് സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ സാങ്കേതികവിദ്യയിൽ വസിക്കുന്നു അതിനാൽ നിങ്ങൾ എയർ കണ്ടീഷനിംഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാലാവസ്ഥയിൽ സാങ്കേതികവിദ്യയിൽ വസിക്കുന്നു നിയന്ത്രിതമായ ഒന്ന് അല്ലെങ്കിൽ സാങ്കേതികവിദ്യ ഒരു പേസ് മേക്കറായി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനിൽ വസിക്കുന്നു അതിനാൽ സാങ്കേതികവിദ്യ നിങ്ങളുടെ ഉള്ളിൽ പോകുന്നു ഒരു പേസ് മേക്കറായി നിങ്ങളിൽ ജീവിക്കുന്നു ഉദാഹരണത്തിന് മനുഷ്യൻ ഒരു ജോടി കണ്ണട ഒരു കൃത്രിമ ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ കണ്ണട പോലും നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച് ഉപയോഗിക്കുന്ന പേന എന്നിവയെല്ലാം പ്രോസ്തെറ്റിക് ഉപകരണങ്ങളാണ് നമ്മൾ വളരെയധികം ആശ്രയിക്കുന്ന ഉപകരണം പക്ഷേ അവ യന്ത്രങ്ങളാണ് സാങ്കേതികവിദ്യ ഒരു അനുബന്ധമായി തോന്നുന്നു എന്നിരുന്നാലും മനുഷ്യൻ അസംബ്ലിയിൽ പ്രവർത്തിക്കുന്നു അവൻ ഒരു അനുബന്ധമായി വർത്തിക്കുന്നതായി തോന്നുന്നു അതിനാൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് സാങ്കേതികവിദ്യ പൂർണ്ണമായും നീക്കം ചെയ്യാനോ വരാനോ കഴിയില്ല സാങ്കേതികവിദ്യയ്ക്ക് പുറത്ത് ഇപ്പോൾ സാങ്കേതികവിദ്യയുടെയും മനുഷ്യ വ്യക്തിത്വത്തിന്റെയും കാര്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അവസാന പോയിന്റ് എന്താണ് മനുഷ്യവർഗത്തിന് അത് നൽകിയ നേട്ടങ്ങൾക്കിടയിലും നമ്മുടെ വ്യക്തിത്വത്തിൽ അതിന്റെ സ്വാധീനം കൂടാതെ സാങ്കേതികവിദ്യയിൽ നിന്ന് നമുക്ക് ലഭിച്ച നിരവധി കാര്യങ്ങളും നിങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട മൂന്ന് പ്രധാന വാക്കുകൾ സാങ്കേതികവിദ്യ ആദ്യത്തെ പ്രധാന വാക്ക് നിയന്ത്രണവും രണ്ടാമത്തേത് നേട്ടവും മൂന്നാമത്തേത് തിരഞ്ഞെടുപ്പുമാണ് ഇപ്പോൾ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ആരാണ് സാങ്കേതികവിദ്യയെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുക ഉദാഹരണത്തിന് ഇന്റർനെറ്റ് സാങ്കേതികവിദ്യ എടുക്കുക ആരാണ് ഇത് നിയന്ത്രിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇടുന്നു അത് തിരികെ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ ആരാണ് ഫേസ്ബുക്ക് നിയന്ത്രിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഇടുന്നു പക്ഷേ നിങ്ങൾക്ക് അതിൽ നിയന്ത്രണമുണ്ടോ അതോ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം മൊബൈൽ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് മൊബൈലിൽ നിയന്ത്രണമുണ്ടോ അതോ മൊബൈൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളെ നിയന്ത്രിക്കണോ ആരാണ് സാങ്കേതികവിദ്യയെ നിയന്ത്രിക്കുന്നത് അത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വവും സ്വത്വവും നിർണ്ണയിക്കുന്ന എന്തിലും നിയന്ത്രണം നേടുക നിങ്ങൾ അത് വികസിപ്പിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മെച്ചപ്പെടുത്താൻ കഴിയും ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സ്രോതസ്സ് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളർച്ച സാധ്യമല്ല വ്യക്തിത്വവും വ്യക്തിത്വവും ഓർക്കുക നമ്മുടെ മുഴുവൻ കോഴ്സ് തത്വശാസ്ത്രവും ആദ്യം ഉൾക്കാഴ്ച മാറ്റുകയും പിന്നീട് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പുറത്തുള്ള മാറ്റങ്ങൾ പുറംഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് ഇപ്പോൾ ആ അർത്ഥത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അകലം പാലിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ട സമയമാണിത് നിങ്ങളുടെ വ്യക്തിത്വബോധം ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക ബ്രാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ആർക്കാണ് പ്രയോജനം ലഭിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കും കുറച്ച് നേട്ടമുണ്ട് പക്ഷേ ഒടുവിൽ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആ ചോദ്യം വീണ്ടും നിങ്ങളെ മനസ്സിലാക്കും ഒരു മിഥ്യാധാരണ മാത്രമായിരിക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് അതായിരിക്കില്ല നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് മറ്റാരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ചേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ ചില മോശം ശീലങ്ങൾക്ക് അടിമകളാക്കുന്നു അതിൽ നിങ്ങൾ എല്ലായ്പ്പോഴും വിശ്വസിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു മോശം ശീലങ്ങളിൽ നിന്നും സൈഗാർനിക് പ്രഭാവം പോലെ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുവരാൻ കഴിയില്ല നമ്മൾ സംസാരിച്ചത് കാര്യങ്ങൾ അപൂർണ്ണമായി തുടരും അതിനാൽ മനസ്സ് അതിലേക്ക് വീണ്ടും വീണ്ടും പോകുകയും മറ്റൊരാൾ അതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യും ഈ അവസ്ഥ നിങ്ങൾ ചോദിക്കേണ്ട അവസാന ചോദ്യം ഞങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടോ എന്നതാണ് എനിക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാമോ ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോകുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും എന്തെങ്കിലും വാങ്ങാൻ മാളിൽ പോകുമ്പോൾ ഞാൻ അത് തിരഞ്ഞെടുക്കുന്നു എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം സ്വയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് ആരോ നിങ്ങളോട് പറഞ്ഞു അത് ഒരു മാർക്കറ്റിംഗ് വ്യക്തിയാണോ അതോ വിൽപ്പനക്കാരനാണോ എന്ന് ആരെങ്കിലും നിങ്ങളോട് എങ്ങനെ പറഞ്ഞു ഒരു വ്യക്തിയോ സുഹൃത്തോ സഹപ്രവർത്തകനോ അവർക്ക് എങ്ങനെ ഈ മതിപ്പ് ലഭിച്ചു ആരാണ് അവരോട് ഇത് പറഞ്ഞത് അവർ എന്തോ വായിച്ചു ഒരു പരസ്യം കണ്ടു റേഡിയോയിൽ കേട്ടു അവർ ഇത് ടിവിയിൽ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചില പരസ്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ കാണുകയോ ചെയ്തു അത് ധരിച്ച് ഉപയോഗിക്കുക അതിനാൽ നിങ്ങളും അത് സ്വന്തമാക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ചു അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് വാങ്ങാൻ ആഗ്രഹിച്ചതായി തോന്നുന്ന തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ തന്നെ അത് ശരിയല്ല ആരെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് തന്നെ തുളച്ചുകയറുകയും നിങ്ങൾക്ക് ഒരുതരം പ്രതിച്ഛായ നൽകുകയും ചെയ്തു നിങ്ങൾ അത് വാങ്ങുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് കഴിച്ചാൽ മാത്രം നിങ്ങൾ അത് ധരിച്ചാൽ മാത്രം എന്ന് ഓർക്കുക നിങ്ങൾക്ക് അത് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിത്വവും വ്യക്തിത്വവും പറയുന്ന ഒരു നല്ല തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു ചോയ്സ് ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു കാര്യം ആരാണ് ഇത് നിങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് സാധാരണയായി നമുക്ക് ഈ ചോദ്യം ചോദിക്കാം ആരാണ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉപഭോക്താക്കളായി നമ്മൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പ്രയോജനം നേടുന്നത് അതേ വ്യക്തിയാണോ സാങ്കേതികവിദ്യയുടെ ദിശ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അതേ വ്യക്തിയാണോ അത് നീങ്ങുന്നു സാങ്കേതികവിദ്യയുടെ അടുത്ത വശം എന്തായിരിക്കണം ഇപ്പോൾ അത് ഒരേ വ്യക്തിയാണെങ്കിൽ അതേ ഗ്രൂപ്പ് ഒരേ കോർപ്പറേഷൻ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആയിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള കെണിയിൽ അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് എളുപ്പത്തിൽ പറയാമെന്ന് തോന്നുന്നു പക്ഷേ ഇത് പിന്തുടരുന്നത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം മൊബൈലിനെ ഒരു ഉദാഹരണമായി എടുക്കുന്ന അടുത്തതിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ചിത്രീകരണങ്ങൾ നൽകും അത് എങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവനയെയും സർഗ്ഗാത്മകതയെയും പിടിച്ചടക്കി പിന്നെ എല്ലാം അത് നിർത്തലാക്കുകയും പിന്നീട് അത് നമ്മുടെ പൂർണ്ണ നിയന്ത്രണവും കൈവശപ്പെടുത്തുകയും ചെയ്തു അതിലേക്ക് പോകുന്നതിനുമുമ്പ് നിങ്ങൾക്കായി രണ്ട് ചിന്തകൾ മാത്രം ഒന്ന് പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീനിൽ നിന്നുള്ളതാണ് അദ്ദേഹം അത് വളരെക്കാലം മുമ്പ് പറഞ്ഞതാണ് എന്നാൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്തും അങ്ങനെ ആയിത്തീരുമെന്ന് തോന്നുന്നു സമകാലിക വിവര യുഗത്തിലും സാങ്കേതികവിദ്യയുടെ യുഗത്തിലും ഇപ്പോൾ വളരെ യാഥാർത്ഥ്യമാണ് സാങ്കേതികവിദ്യ നമ്മുടെ മനുഷ്യ ഇടപെടലിനെ മറികടക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സാങ്കേതികവിദ്യ നമ്മുടെ മനുഷ്യ ഇടപെടലിനെ മറികടക്കുന്ന ദിവസം ലോകത്തിന് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു വിഡ്ഢികളുടെ ഒരു തലമുറ ഞാൻ ഇത് വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല ലഭ്യമായ മറ്റൊന്ന് നിങ്ങൾ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മൊബൈൽ ഫോണുകളെക്കുറിച്ച് ഫേസ്ബുക്കിൽ സ്വയം താരതമ്യം ചെയ്യുകയും വേഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക നിഗമനം മൊബൈൽ ഫോണുകൾ നിങ്ങളെ അകലെയുള്ള വ്യക്തിയുമായി കൂടുതൽ അടുപ്പിക്കുന്നു മൊബൈൽ ഫോണുകൾ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള ആളിലേക്ക് പക്ഷേ അത് നിങ്ങളുടെ അരികിൽ ഇരിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നു അതിനാൽ ഇത് നിങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള ആളുകളുമായി ബന്ധിപ്പിക്കുന്നു പക്ഷേ അത് നിങ്ങളെ ഇരിക്കുന്നവരിൽ നിന്ന് അകറ്റിനിർത്തുന്നു നിൻറെ അടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ആശയവിനിമയത്തിനായി പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കണം എത്രത്തോളം ഫലപ്രദമല്ല ഉപയോഗിക്കുന്നു അതിനാൽ ഇതോടെയാണ് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കോഴ്സിന്റെ പകുതി കടന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഫോറത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുക